അസൈൻമെന്റ് 6 ന്റെ നാല് പ്രശ്നങ്ങൾ ശൈലേന്ദർ കുമാർ ഇപ്പോൾ പരിഹരിച്ചു അടുത്ത നാല് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് ഐഐടി കാൻപൂരിലെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലെ പിഎച്ച്ഡി വിദ്യാർത്ഥിയായ അൻമോൾ താക്കൂർ ആണ് അതിനാൽ ഇവിടെ അൻമോൾ താക്കൂർ ഉണ്ട് വിദ്യാർത്ഥി ആമുഖത്തിന് നന്ദി സർ അതിനാൽ അസൈൻമെന്റ് നമ്പർ 6 ന്റെ ശേഷിക്കുന്ന നാല് പ്രശ്നങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നു അതിനാൽ പ്രശ്നം നമ്പർ 5 ആണ് ഞാൻ ആദ്യം പ്രശ്നം പറയാൻ പോകുന്നത് അതിനാൽ ഒരു ഗോളം ഉപരിതല ചാർജ് ഡെൻസിറ്റി സിഗ്മ വഹിക്കുന്നതാണ് പ്രശ്നം അതിനാൽ ഒരു സിഗ്മ ഉപരിതല ചാർജ് വഹിക്കുന്ന ഒരു ഗോളത്തെ പരിഗണിക്കുക അതിന്റെ കേന്ദ്രo ഉത്ഭവമാണ് അതിനാൽ ഇതാണ് കേന്ദ്രo ഇത് z അക്ഷത്തിൽ കോണീയ സ്പീഡ് ഒമേഗ ഉപയോഗിച്ച് കറങ്ങുന്നു ഇത് ഒമേഗ z ക്യാപ് ആണ് അതിനാൽ ഞാൻ ആദ്യം ഇത് വരയ്ക്കട്ടെ അതിനാൽ ഇത് ഈ ഒമേഗ z ക്യാപ് പോലെ കറങ്ങുന്നു അതിനാൽ ഉപരിതലത്തിന് തൊട്ട് പുറത്തുള്ള പോയിന്റിംഗ് വെക്റ്റർ നൽകിയിരിക്കുന്നു അതിനാൽ ഈ സിസ്റ്റത്തിനായി പോയിന്റിംഗ് വെക്റ്റർ നമ്മൾ കണക്കാക്കണം അതിനാൽ ഈ സിസ്റ്റം പരിഹരിക്കുന്നതിനായി ഞാൻ ലെക്ചർ നമ്പർ 25 റഫർ ചെയ്യും അത്തരം സിസ്റ്റങ്ങൾക്ക് കാന്തികക്ഷേത്രം എങ്ങനെ കണക്കാക്കാമെന്ന് ഇൻസ്ട്രക്ടർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ സ്പിന്നിംഗ് ഗോളത്തിന്റെ വെക്റ്റർ പോട്ടെൻഷ്യൽ ഞാൻ നേരിട്ട് എഴുതുന്നു അവിടെ നിന്ന് നമ്മൾ കാന്തികക്ഷേത്രം കണക്കാക്കും ഈ സിസ്റ്റത്തിനായുള്ള ഇലക്ട്രിക് ഫീൽഡും നമ്മൾ കണക്കാക്കും തുടർന്ന് പോയിന്റിംഗ് വെക്റ്റർ കണക്കാക്കാൻ നമ്മൾ നീങ്ങും അതിനാൽ പ്രഭാഷണ നമ്പർ 25 ലെ കുറിപ്പുകൾ നിങ്ങൾ തിരിഞ്ഞുനോക്കിയാൽ വെക്റ്റർ പോട്ടെൻഷ്യൽ അത്തരം സിസ്റ്റത്തിന് A നൽകുന്നത് mu നോട്ട് ക്യാപിറ്റൽ R ആണ് ആരം എന്ന് നിങ്ങൾ കണ്ടെത്തും ഞാനിത് ഇവിടെ പ്രസ്താവിക്കട്ടെ R ആണ് ദൂരം mu നോട്ട് ക്യാപിറ്റൽ R ഒമേഗ സിഗ്മ r സൈൻ തീറ്റ r എന്നത് വെക്റ്റർ പോട്ടെൻഷ്യൽ 3 കൊണ്ട് ഹരിക്കാനുള്ള ദൂരമാണ് ഇത് r ക്യാപിറ്റൽ R നേക്കാൾ തുല്യമോ കുറവോ ആണ് mu നോട്ട് R പവർ 4 ഒമേഗ സിഗ്മ സൈൻ തീറ്റ 3 r ചതുരമായി വിഭജിച്ചിരിക്കുന്നു r ക്യാപിറ്റൽ R നേക്കാൾ തുല്യമോ വലുതോ ആണ് A 0Rωσrsinθ3 r≤R 0R4ωσsinθ3r2 r≥R അതിനാൽ നമ്മളുടെ പ്രശ്നത്തിൽ നമ്മൾ പുറത്ത് നിന്ന് കണക്കാക്കണം അതിനാൽ നമ്മൾ പിന്നീട് ഈ അനുമാനം ഉപയോഗിക്കും ഇപ്പോൾ നമ്മൾ ചെറിയ r ക്യാപിറ്റൽ R എന്നിവ ഉപയോഗിക്കും പിന്നീട് ക്യാപിറ്റൽ R തുല്യമായ ഒരു ചെറിയ r ഇടും അതിനാൽ ഇത് ഓർമ്മിപ്പിക്കുക അതിനാൽ നമുക്ക് എ ലഭിച്ചുകഴിഞ്ഞാൽ ഈ ബി യുടെ കാന്തികക്ഷേത്രമായ കർൾ എ കണക്കാക്കാം BA ഞാൻ ഈത് നിങ്ങൾക്കായി വിടുകയാണ് ഗോളീയ ധ്രുവ കോർഡിനേറ്റ് സിസ്റ്റങ്ങളിൽ നിങ്ങൾക്ക് എ യുടെ കർൾ കണ്ടെത്താൻ കഴിയും അതിനാൽ ഞാൻ അത് വിട്ടു പോയി എ യുടെ ദിശ ഫൈ ക്യാപ്പ് ആണ് അതിനാൽ ബി എ യുടെ കർൾ ആണ് ഗോളാകൃതിയിലുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കർൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താനാകും ഞാൻ ബി എന്നതിന്റെ അവസാന ഫോർമുല എഴുതുകയാണ് പുറത്തുള്ള മാർഗ്ഗങ്ങൾr R നെക്കാൾ വലുത് അതിനാൽ B ആയിരിക്കും B എന്നതിന് തുല്യമാണ് mu നോട്ട് R പവർ 4 ഒമേഗ സിഗ്മ ബൈ 3 2 കൊസൈൻ തീറ്റ r ക്യാപ് പ്ലസ് സൈൻ തീറ്റ തീറ്റ cap ബൈ r ക്യൂബ ഈ സിസ്റ്റത്തിനായുള്ള ബി യുടെ മൂല്യം ഇതായിരിക്കും നിങ്ങൾക്ക് ഇത് r R നെക്കാൾ വലുതാകാം ഇത് കണക്കാക്കാൻ ഞാൻ ഇത് എടുക്കുന്നു അതിനാൽ ബി ഉപയോഗിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എ കണക്കാക്കും ക്ഷമിക്കുക ഈ ഗോളം കാരണം വൈദ്യുത മണ്ഡലം B 0R4ωσ3 2cosθrsinθ r3 അതിനാൽ നമുക്ക് ഗൌസ് നിയമം ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന വൈദ്യുത മണ്ഡലം ഞാൻ വീണ്ടും ഈ ഗോളത്തെ വരയ്ക്കുന്നു ഇത് സിഗ്മയാണ് ഗൌസ്യൻ ഉപരിതലത്തിൽ നിന്ന് r അകലെ പോകുക ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ എഴുതാം E ഡോട്ട് ds സിഗ്മയ്ക്ക് തുല്യമാണ് നിങ്ങൾക്ക് ഇത് സിഗ്മ ഗുണം 4 pi R സ്ക്വാർ എഴുതാൻ കഴിയും ഇവിടെ R ആണ് നിങ്ങൾക്ക് ഇത് പോലെ എഴുതാൻ കഴിയുന്നത് R ആണ് എപ്സിലോൺ കൊണ്ട് ഹരിച്ച ദൂരം ഇത് E ന് 4 pi r സ്ക്വയറിലേക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും വ്യക്തമായും ഇ റേഡിയൽ പുറത്തേക്ക് സിഗ്മ ഗുണം 4 പൈ ആർ സ്ക്വാർ എപ്സിലോൺ നോട്ട് നൽകുകയും നിങ്ങൾക്ക് ഇ നൽകുന്നത് സിഗ്മ ആർ സ്ക്വാർ ബൈ എപ്സിലോൺ ചെറിയ ആർ സ്ക്വയർ ആർ ക്യാപ്പ് തുല്യമാണ് അതിനാൽ നമുക്ക് E ലഭിച്ചു നമുക്ക് B ലഭിച്ചു അതിനാൽ പോയിന്റിംഗ് വെക്റ്റർ S നൽകുന്നത് 1 ഓവർ mu നോട്ട് E ക്രോസ് ബി ആണ് E 4πR2o E R20r2 r S 10 E× B അതിനാൽ ഇത് ഇപ്പോൾ വെക്റ്റർ പ്രോഡക്റ്റ് മാത്രമാണ് നമ്മൾ അത് കണക്കാക്കും നിങ്ങൾ ഇത് കണക്കാക്കുക ഞാൻ അവസാന ഫോം എഴുതുകയാണ് എല്ലാ ചിഹ്നങ്ങളും ശ്രദ്ധിക്കുക എസ് R പവർ 6 ഒമേഗ സിഗ്മ സ്ക്വയർ സൈൻ തീറ്റയെ 3 r പവർ 5 എപ്സിലോൺ നോട്ട് ഫി ക്യാപ് കൊണ്ട് ഹരിക്കുന്നു S R62sinθ3r50 ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രശ്നത്തിൽ നൽകിയിട്ടുള്ളത് ഗോളത്തിന് പുറത്താണ് നൽകിയിരിക്കുന്നത് അതിനാൽ ചെറിയ r തുല്യമാണ് R ന് തൊട്ടപ്പുറത്ത് തുടർന്ന് S ഇത് ഒമേഗ സിഗ്മ സ്ക്വയർ R സൈൻ തീറ്റയെ 3 എപ്സിലോൺ നോട്ട് കൊണ്ട് ഹരിക്കുന്നു When rR S 2Rsinθ30 അതിനാൽ ഇത് കാരണം ഉത്തരം നൽകുന്ന പോയിന്റിംഗ് വെക്റ്റർ ആണ് കൂടാതെ ദിശ phi ആണ് അതിനാൽ ഇതാണ് പരിഹാരം ഇത് പരിഹാര സെറ്റിന്റെ അല്ലെങ്കിൽ ചോദ്യ സെറ്റിന്റെ ഓപ്ഷൻ നമ്പർ b നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇതാണ് ഉത്തരം ഇപ്പോൾ നമ്മൾ ചോദ്യം നമ്പർ 6 ലേക്ക് നീങ്ങും അതിനാൽ ചോദ്യo നമ്പർ 6 പറയുന്നു ആരം r ഉള്ള ഒരു നീണ്ട സോളിനോയിഡിന് ഒരു യൂണിറ്റ് നീളത്തിന് n തിരിവുകളുണ്ട് കൂടാതെ സമയം ടി പൂജ്യത്തിനു തുല്യമായാൽ ഒരു കറന്റ് I നോട്ട് വഹിക്കുന്നു അതിനാൽ പ്രശ്നം അങ്ങനെയാണ് നമ്മൾക്ക് കുറച്ച് നീളമുള്ള സോളിനോയിഡ് ഉണ്ട് അതിനാൽ I phi ദിശയിലാണ് അത് എടുക്കുക I ദിശയിലേക്കും അതേസമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നു കറന്റ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിനർത്ഥം എന്നതിനാൽ കറന്റ് ടി യുടെ ഒരു ഫംഗ്ഷന് തുല്യമാണ് എന്ന് നൽകപ്പെടുന്നു കൂടാതെ I നോട്ട് പ്ലസ് ആൽഫ ടി ലീനിയർ ആയി വർദ്ധിക്കുന്നു സിലിണ്ടർ ഉപരിതലത്തിന് പുറത്ത് I തുല്യമാണ് I നോട്ട് പ്ലസ് ആൽഫ ടി തുടർന്ന് സോളിനോയിഡിന്റെ സിലിണ്ടർ ഉപരിതലത്തിനുള്ളിൽ I തുല്യമാണ് I നോട്ട് പ്ലസ് ആൽഫ ടി ItI0αt നമ്മൾ അകത്ത് തന്നെ കണക്കാക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ വീണ്ടും കാണുന്നു അതിനാൽ ചെറിയ r ക്യാപിറ്റൽ R ന് തുല്യമായി പിന്നീട് ഇടും അതിനാൽ വീണ്ടും നമ്മൾ E B എന്നിവ കണക്കാക്കേണ്ടതുണ്ട് തുടർന്ന് E B എന്നിവയുടെ ക്രോസ് പ്രൊഡക്റ്റ് അതിനാൽ നീളമുള്ള സോളിനോയിഡിനായി അനന്തമായ നീളമുള്ള സോളിനോയിഡ് കാന്തികക്ഷേത്രം mu നോട്ട് n I z ക്യാപ് ആയി phi ദിശയിലാണ് നൽകിയിട്ടുണ്ടെന്ന് നമുക്കറിയാം ദിശ അതിനാൽ muനോട്ട് n I z ക്യാപ് B0nI z ഇപ്പോൾ I t യുടെ ഒരു ഫങ്ക്ഷന് ആണ് അതിനാൽ വൈദ്യുതധാരയിലെ മാറ്റം യഥാർത്ഥത്തിൽ കാന്തികക്ഷേത്രത്തെ മാറ്റും സമയവുമായി ബന്ധപ്പെട്ട് കാന്തികക്ഷേത്രത്തിലെ ഈ മാറ്റം വാസ്തവത്തിൽ വൈദ്യുത മണ്ഡലത്തെ പ്രേരിപ്പിക്കും അതിനാൽ വൈദ്യുത മണ്ഡലം തുല്യമായിരിക്കും E ഡോട്ട് dl മൈനസ് d ബൈ dt B ഡോട്ട് d s ന് തുല്യമായിരിക്കും ഈ ചെറിയ സർക്കിളിനെ S ന്റെ ആരം ആയി കണക്കാക്കിയാൽ നമുക്ക് അതിനെ E ടു 2 pi s കണക്കാക്കാം ഇത് മൈനസ് dB ബൈ dt ഡോട്ട് pi s സ്ക്വാർ ഉം dB by dt തുല്യമായിരിക്കും mu നോട്ട് n dI ബൈ dt E πs2 dBdt0ndIdt സമവാക്യo 1 ൽ നിന്ന് നമുക്ക് ഇത് നേരിട്ട് dB ബൈ dt എന്ന് എഴുതാം ഇത് mu നോട്ട് n alpha ന് തുല്യമാണ് dBdt0nα അതിനാൽ E പിന്നീട് മൈനസ് മ്യു നോട്ട് എൻ ആൽഫ ആർ ബൈ 2 ന് തുല്യമാണ് നൽകുന്നത് ഇവിടെ സോളിനോയിഡിന്റെ ആരം ആർ യഥാർത്ഥത്തിൽ ഫൈ ക്യാപ്പ് പോലെയാണ് ഇപ്പോൾ നമ്മൾ പോയിന്റിംഗ് വെക്റ്റർ കണക്കാക്കേണ്ടതുണ്ട് മുമ്പത്തെ സ്ലൈഡിൽ ബി ഇതിനകം നൽകിയിട്ടുണ്ട് അതിനാൽ എസ് വീണ്ടും ഇ ക്രോസ് ബി ആയി മു നട്ട് കൊണ്ട് ഹരിക്കുന്നു ഇത് മൈനസ് മു നോട്ട് എൻ സ്ക്വയർ ആൽഫയെ 2 ഗുണം I നോട്ട് പ്ലസ് ആൽഫ ടി ആർ ക്യാപ്പ് കൊണ്ട് ഹരിക്കുന്നു E 0nαR2 S ER0 0n22 I0αtr അതിനാൽ ഇത് ഉൾപ്പെടുന്ന റേഡിയൽ ആണ് ഞാൻ വിശദീകരണം സാറിന് വിട്ടുകൊടുക്കും ഇതിനെക്കുറിച്ചു കൂടുതൽ അദ്ദേഹം നിങ്ങൾക്ക് വിശദീകരിക്കും അതിനാൽ ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു അതിലൊന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഗോളവുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് ഒരു സോളിനോയിഡ് ഉള്ളതും കറന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് മുമ്പത്തെ കേസിൽ പോയിന്റിംഗ് വെക്റ്റർ phi ദിശയിലാണെന്ന് നമ്മൾ കണ്ടെത്തി അതിനാൽ ഇത് ചുറ്റും പോകുന്നു അത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും അകത്തേക്ക് പോകുകയോ പുറത്തു പോകുകയോ ചെയ്യുന്ന ഊർജ്ജം ഇല്ലെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും മറുവശത്ത് സോളിനോയിഡ് ഊർജ്ജം പോയിന്റിംഗ് വെക്റ്ററിൽ വരുന്നു പോയിന്റിംഗ് വെക്റ്റർ യഥാർത്ഥത്തിൽ ഒരു ഭൌതിക അളവാണ് അത് ഒരു യൂണിറ്റ് ഏരിയയ്ക്ക് എത്രത്തോളം ഊർജ്ജം പ്രവഹിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഇപ്പോൾ മുമ്പത്തെ ഒരു ഗോളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം അത് ചുറ്റിക്കറങ്ങുന്നു അല്ലെങ്കിൽ സ്വയം ഊർജ്ജം പുറത്തുപോകുകയോ ഈ സിസ്റ്റത്തിലേക്ക് വരികയോ ഇല്ല മറുവശത്ത് സോളിനോയിഡിൽ വൈദ്യുതധാര കൂടുന്നതിനനുസരിച്ച് അതിനുള്ളിലെ ഫീൽഡും ബി ഫീൽഡ് വർദ്ധിക്കുകയാണെങ്കിൽ ആ കാന്തികക്ഷേത്രത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജവും വർദ്ധിക്കുന്നു അത് ഈ പോയിന്റിംഗ് വെക്റ്റർ കൊണ്ടുവരുന്നു ഇപ്പോൾ നമ്മൾ പരിഹരിക്കും അടുത്ത രണ്ട് പ്രശ്നങ്ങൾ വിദ്യാർത്ഥി മൂന്നാമത്തെ ചോദ്യം ദൂരത്തിന്റെ രണ്ട് വലിയ വൃത്താകൃതിയിലുള്ള പ്ലേറ്റുകൾ പരിഗണിക്കുക പ്ലേറ്റുകൾ തമ്മിലുള്ള ദൂരം ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കുന്നു d അതിനാൽ ഇത് ഇതുപോലെയാണ് അതിൽ രണ്ട് പ്ലേറ്റുകളുണ്ട് രണ്ടും ചാർജ് Q 0 വഹിക്കുന്നു അടുത്തത് കുറച്ച് മൈനസ് Q 0 വഹിക്കുന്നു അവ R അകലെയാണ് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കണക്കാക്കേണ്ടതുണ്ട് ഇത് പോയിന്റ് പി ആണ് അവയുടെ കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്ന നേർത്ത വയർ വഴി അവ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വയർ വഴി കറന്റ് ഒഴുകുന്നു താഴത്തെ പ്ലേറ്റിൽ നിന്ന് മുകളിലെ പ്ലേറ്റിലേക്ക് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാകും എന്ന് വ്യക്തം വയർ പ്രതിരോധം R ആണെങ്കിൽ ഈ വയർ പ്രതിരോധം R നൽകിയിരിക്കുന്നു പി പോയിന്റിൽ വയർ നിന്ന് എസ് അകലെയുള്ള കാന്തികക്ഷേത്രം എന്തായിരിക്കും ഈ പോയിന്റ് എസ് വേറിട്ടതാണ് അതിനാൽ ഇത് അർത്ഥത്തിൽ എസ് ആണ് ഇത് മൈനസ് ക്യു 0 ആണ് ശരി അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാം അതിനാൽ നമ്മൾ ഇതുപോലെ മുന്നോട്ട് പോകും ഇത് പ്രശ്ന നമ്പർ 7 ആണ് നമുക്ക് V എന്നത് I R ന് തുല്യമാണെന്ന് നമുക്കറിയാം V ബൈ R എന്നത് I ന് തുല്യമാണ് അത് dQ ബൈ dt ന് തുല്യമാണ് അത് നമുക്ക് Q നൽകുന്നു VIR VRI dQdt QCR ക്യു ബൈ സിആർ മൈനസ് ക്യൂവിന് തുല്യമായി ഇത് പരിഹരിക്കാനും കഴിയും ചാർജ് കുറയുന്നു അതിനാലാണ് നമ്മൾ ക്യു മൈനസ് ക്യു ആയി എടുക്കുന്നത് കാരണം ചാർജ് ഇവിടെ നിന്ന് അവിടെ നിന്ന് ഒരു മൈനസ് ക്യു ആയി പ്രവഹിക്കുന്നു അതിനാൽ ഇത് നിങ്ങൾക്ക് dQ ബൈ Q നൽകുന്നു ഇത് മൈനസ് dt ബൈ RC യുടെ തുല്യമാണ് കൂടാതെ 0 ന് തുല്യമാകുമ്പോൾ നിങ്ങൾക്ക് ഇത് കണക്കാക്കാം നിങ്ങൾക്ക് ln Q ബൈ Q 0 ഉള്ളപ്പോൾ t ന് തുല്യമാകുമ്പോൾ ഇത് Q ആണ് അതിനാൽ നിങ്ങൾക്ക് Q 0 കൊണ്ട് ln Q കണക്കാക്കാം മൈനസ് t ന് തുല്യമാണ് എന്റെ Q നൽകുന്ന മൈനസ് t ബൈ ആർസി അത് എനിക്ക് നൽകുന്നു Q തുല്യമാണ് Q 0 ഇ ടു ദി പവർ മൈനസ് ടി ബൈ ആർ സി Q0QdQQ 0t dtCR lnQQ0 tRC QQ0e tRC ഇതിനർത്ഥം ചാർജ് ഏത് സമയത്തും Q ആണ് അതിനെ t ആയി എടുക്കുക അതിനർത്ഥം ഈ പ്ലേറ്റ് ലോവർ പ്ലേറ്റിൽ നിന്നുള്ള എന്റെ ചാർജ് സമയം കുറയുന്നത് പോലെയാണ് അതായത് കറന്റ് വർദ്ധിക്കുന്നത് പോലെയാണ് അതായത് സമാനമാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ആദ്യം ഇ ഇലക്ട്രിക് ഫീൽഡ് കണക്കാക്കും അതിനാൽ ഇവ എന്റെ പ്ലേറ്റുകളാണ് ചാർജ് പ്ലസ് ക്യു 0 മൈനസ് ക്യു 0 എന്നിവ വഹിക്കുന്നു ഇപ്പോൾ ഏത് ഘട്ടത്തിലും ഉണ്ടെന്ന് നമുക്കറിയാം വ്യക്തമായും ഇതുപോലുള്ള ഇലക്ട്രിക്കൽ പോയിന്റിംഗ് ഉണ്ടാകും അതിനാൽ ഏത് ഘട്ടത്തിലും ഒരു ഷീറ്റിനുള്ള വൈദ്യുത മണ്ഡലം നമുക്കറിയാം അല്ലെങ്കിൽ ഇ നൽകുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് ആദ്യ പ്ലേറ്റ് കാരണം കൂടാതെ പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട് രണ്ടാമത്തേത് കാരണം ഇവയെല്ലാം z ക്യാപ് ഇവിടെ ഞാൻ എന്റെ z നിർവചിക്കുന്നു അവിടെ എന്റെ കോർഡിനേറ്റ് സിസ്റ്റം ഈ z x y പോലെയാണ് അതിനാൽ ഇത് പ്ലസ് z ദിശയിലേക്ക് പോകുന്നു E20 20 z Et 0 z Et Q0e tRCa20 z അതിനാൽ എന്റെ ഇ ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് z ക്യാപ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ടി എഴുതാം കാരണം ചാർജ് ക്ഷയിക്കുന്നു അതിനാൽ നമുക്ക് ഇത് ഇ ടി സിഗ്മ എന്നിങ്ങനെ എഴുതാം ഇവിടെ എഴുതാൻ കഴിയുന്ന ചാർജ് Q നോട്ട് E ടു പവർ മൈനസ് ടി ബൈ ആർസി ബൈ ഏരിയ പി എ സ്ക്വാർ എപ്സിലോൺ നോട്ട് z ക്യാപ് ആയിരിക്കുംആണ് അതിനാൽ ഇതാണ് എന്റെ ഇലക്ട്രിക് ഫീൽഡ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കാന്തികക്ഷേത്രം കണക്കാക്കുന്നതിന് വൈദ്യുത മണ്ഡലത്തിലെ ഈ മാറ്റം ചില കാന്തികക്ഷേത്രങ്ങളെ പ്രേരിപ്പിക്കും അതിനാൽ വൈദ്യുത മണ്ഡലത്തിലെ ഈ മാറ്റം കാരണം നമ്മൾ ആദ്യം കാന്തികക്ഷേത്രം കണക്കാക്കും കാന്തികക്ഷേത്രത്തിലേക്കുള്ള രണ്ടാമത്തെ സംഭാവന കറന്റ് I വഹിക്കുന്ന ഈ വയർ മൂലമായിരിക്കും അതിനാൽ കാന്തികക്ഷേത്രത്തിന് രണ്ട് സംഭാവനകളുണ്ടാകും ആദ്യം കാരണം ഈ സമയം വ്യത്യസ്തമായ വൈദ്യുത മണ്ഡലവും വയർ വഴി ഒഴുകുന്ന ഈ വൈദ്യുതധാര കാരണം രണ്ടാമത്തേതും അതിനാൽ നിങ്ങൾ ഇവിടെ രണ്ടും ഓരോന്നായി കണക്കാക്കും അതിനാൽ ആദ്യം ഞാൻ ഈ സമയത്തെ ആശ്രയിച്ചുള്ള വൈദ്യുത മണ്ഡലം കാരണം കാന്തികക്ഷേത്രം കണക്കാക്കാൻ പോകുന്നു അതിനാൽ ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് ഡെൽ E ബൈ ഡെൽ ടി ഉപയോഗിച്ച് പ്രേരിപ്പിക്കാം അതിനാൽ ഇത് മൈനസ് 1 ബൈ ആർസി പൈ a സ്ക്വാർ എപ്സിലോൺ നോട്ട് ആയിരിക്കും നിങ്ങൾ മൈനസ് 1 എന്ന് എഴുതരുത് എനിക്ക് അതിനെ ക്യൂ നോട്ട് ഇ ടു പവർ മൈനസ് കൊണ്ട് ടി by R C അതിനാൽ ഇത് സമയമാണ് dv ബൈ d t z ക്യാപ് ദിശയ്ക്കായി ഉപയോഗിച്ച് E∂t Q0e tRCRCπa20 z ഇപ്പോൾ വ്യത്യസ്തമായ വൈദ്യുത മണ്ഡലം കാരണം നമ്മൾ കാന്തികക്ഷേത്രം കണക്കാക്കും അതിനാൽ B dot dl നൽകിയ ഇത് mu നോട്ട് എപ്സിലോൺ നോട്ട് dt dot ds ന് തുല്യമാണ് അതിനാൽ സമയ വ്യതിയാനമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇത് കാന്തികക്ഷേത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്ന കുറച്ച് എസ് എടുക്കാം അതിനാൽ B dot dl dl phi ദിശയിലുള്ളത് പോലെയാകും അതിനാൽ ഇത് phi ദിശ നൽകുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദിശ അതിനാൽ ഇത് B ഗുണം 2 പൈ s ആണ് ഇത് mu നോട്ട് എപ്സിലോൺ നോട്ട് നമ്മളുടെ മുൻ സ്ലൈഡിൽ d ബൈ dt കണക്കാക്കി ഇത് ഇതിന് തുല്യമാണ് ds B2πs 00Q0e tRC0RCπa2×πs2 B 0Q0e tRC πs22πRC πa2s Bdis 0Q0e tRC s2πRC a2 അതിനാൽ ഞാൻ ഇവിടെ എഴുതട്ടെ Q 0 ഒരു മൈനസ് ചിഹ്നം ഉണ്ട് e പവർ മൈനസ് ടി ബൈ ആർസി വിഭജിച്ച് എപ്സിലോൺ കൊണ്ട് ഹരിക്കില്ല ആർസി പൈ ഇവിടെ നിന്ന് ഒരു ചതുരം എപ്സിലോൺ എപ്സിലോൺ റദ്ദാക്കുകയും ഒരു ഡിഎസ് ഉണ്ടാവുകയും ചെയ്യും അതിനാൽ ഇത് pi s സ്ക്വയർ ഇവിടെ ദൃശ്യമാകും അതിനാൽ ഇത് എന്റെ B നൽകുന്നത് മൈനസ് mu എന്നതിന് തുല്യമാണ് Q 0 e പവർ മൈനസ് t ബൈ RC 2 pi RC pi a സ്ക്വയർ പൈ s സ്ക്വയർ കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഈ പൈ ഈ പൈ റദ്ദാക്കും കൂടാതെ s ന്റെ ഒരു ഘടകവുമുണ്ട് ഇത് ഈ s റദ്ദാക്കുകയും ഇത് phi ക്യാപ്പിലായിരിക്കുകയും ചെയ്യും അതിനാൽ ഇതാണ് എന്റെ ബി വെക്റ്റർ മൈനസ് mu 0 Q 0 e പവർ മൈനസ് ടി ബൈ R Cവരെ 2 pi R C a സ്ക്വയർ phi ക്യാപ് കൊണ്ട് ഹരിക്കുന്നു അതിനാൽ സമയം വ്യത്യാസപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് മൂലമുള്ള സംഭാവനയാണിത് ഇപ്പോൾ രണ്ടാമത്തെ സംഭാവന നമുക്ക് അതിനെ ഒരു ബി ഡിസ്പ്ലേസ്മെൻറ് എന്ന് എഴുതാം നിങ്ങൾക്ക് ബി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം ഇതാണ് ആദ്യത്തേത് ഇപ്പോൾ രണ്ടാമത്തെ ബി നമ്മൾ കണക്കാക്കും അത് അതിലൂടെയുള്ള കറന്റ് കാരണം വീണ്ടും സംഭവിക്കും വീണ്ടും അതേ ലൂപ്പ് ഉണ്ടാക്കി വീണ്ടും ആമ്പിയർ നിയമം ഉപയോഗിക്കുക B dot dl തുല്യമാണ് mu നോട്ട് I എന്നതിന് I വർദ്ധിച്ചുവരികയാണ് ഈ ദിശ നിങ്ങൾക്കറിയാം അതിനാൽ ഇത് 2 pi s തുല്യമാണ് mu നോട്ട് I ഇത് dQ ബൈ dt എന്നതിന് തുല്യമാണ് അതിനാൽ ഇത് കൃത്യമായിരിക്കുന്നതിനാലാണ് ഇത് d ബൈ dt ക്യൂ e പവർ മൈനസ് tau ബൈ ആർ സി എഴുതാൻ അനുവദിക്കുക കാരണം യഥാർത്ഥത്തിൽ മോഡ് എടുക്കും I വർദ്ധിച്ചുവരികയാണ് dl0I B 2πs0ddt Q0e tRC B 2πs 0Q0RC e tRC BI 0Q0e tRC2πRC s അതിനാൽ ഇത് mu നോട്ട് Q 0 ബൈ R C ആർസി e പവർ മൈനസ് tau ബൈ ആർസി ബി ടു 2 pi s ആയിരിക്കും അതിനാൽ ബി വെക്റ്റർ Q നോട്ട് e പവർ മൈനസ് ടി ബൈ ആർസി 2 പൈ ആർസി s ഫൈ ക്യാപ്പ് ആയിരിക്കും ഇത് കറന്റ് I എന്ന് പറയാo അതിനാൽ ബി കാരണം ഞാൻ ഇത് പോലെ എഴുതുകയാണ് ഇപ്പോൾ ആകെ ബി നമ്മൾ ബി ടോട്ടൽ കണക്കാക്കണം അതിനാൽ ബി ടോട്ടൽ അതിനാൽ ബി ടോട്ടൽ mu നോട്ട് ബൈ 2 പൈ ആർസി Q നോട്ട് ഇ പവർ പവർ മൈനസ് ടി ബൈ ആർസി ബൈ ഫൈ ക്യാപ്പ് മൈനസ് മ്യു നോട്ട് ബൈ 2 പൈ ആർസി ക്യു നോട്ട് ഇ പവർ മൈനസ് ടി ബൈ ആർസി എസ് ബൈ a സ്ക്വയർ ഫൈ ക്യാപ് ആണ് അതിനാൽ ഇവിടെ സാധാരണമായിരിക്കുന്ന അളവ് എടുക്കുക അതിനാൽ ഇത് 2 pi R C Q നോട്ട് e പവർ മൈനസ് ടി ബൈ ആർസി ഞാൻ കരുതുന്നു നമ്മൾക്ക് ശേഷിക്കുന്നു 1 ബൈ s മൈനസ് s a സ്ക്വാർ ഫൈ ക്യാപ്പ് Btotal 02πRC Q0e tRCs 02πRCQ0e tRC sa2 Btotal 0Q0e tRC2πRC 1s sa2 അതിനാൽ ഇത് ബി വെക്റ്ററാണ് കാരണം നമ്മൾ ഇപ്പോൾ ബി കണക്കാക്കിയതിനാൽ ഇത് ചെയ്തു സി ഓപ്ഷൻ ഇത് തൃപ്തിപ്പെടുത്തിയതായി നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ചോദ്യം നമ്പർ 8 ഈ സിസ്റ്റത്തിനായി പോയിന്റിംഗ് വെക്റ്റർ കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ E കണക്കുകൂട്ടി നമ്മൾ ചെയ്തു നമ്മൾ B കണക്കാക്കി ഇപ്പോൾ നമ്മൾ s 1 എന്ന് എഴുതുന്നു mu നോട്ട് E ക്രോസ്സ് B ഇത് പോലെ ലളിതമാണ് അതിനാൽ Q e പവർ മൈനസ് tau ബൈ ആർസി a സ്ക്വയർ എപ്സിലോൺ നോട്ട് തുല്യമല്ലെന്ന് നമുക്കറിയാം അതിനാൽ ഇതാണ് z ക്യാപ്പിലെ വൈദ്യുത മണ്ഡലം ഇപ്പോൾ s ന് തുല്യമായത് ഇതുപോലെ ഗുണിക്കും അതിനാൽ ഇത് Q നോട്ട് സ്ക്വയർ e പവർ മൈനസ് 2 ടി ബൈ ആർസി 2 pi ആർസി a സ്ക്വയർ എപ്സിലോൺ നോട്ട് കൊണ്ട് ഹരിക്കുന്നു 1 ബൈ s മൈനസ് s ബൈ a സ്ക്വയർ ഇത് z ക്യാപ് ക്രോസ് ഫൈ ക്യാപ് ഇത് സ് വെക്റ്റർ s വെക്റ്റർ തുല്യമാണ് Q നോട്ട് സ്ക്വർ e പവർ മൈനസ് 2 ടി ബൈ 2 പി ആർ സി എപ്സിലോൺ നോട്ട് 1 ബൈ എസ് മൈനസ് എസ് ബൈ എ സ്ക്വാർ ഉം z ക്രോസ് ഫൈ മൈനസ് ആർ ക്യാപ് ആണ് S10 EB E Q0e tRCa20 z S Q02e 2tRC2πRC a20 1s sa2 z S Q02e 2tRC2πRC a201s sa2 r ഇപ്പോൾ നിങ്ങളുടെ ചോദ്യ സെറ്റിൽ നിന്ന് ഓപ്ഷനുകൾ കാണാൻ കഴിയുന്ന പോയിന്റിംഗ് വെക്റ്ററാണ് ഇത് ഇത് ഓപ്ഷനുകളിലൊന്നുമായി പൊരുത്തപ്പെടുന്നു ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത് ആർസി എന്നത് സമയ സ്ഥിരതയെ എപ്പോഴെങ്കിലും വിളിക്കുന്നു ക്ഷണിക സർക്യൂട്ടിന്റെ സമയ സ്ഥിരതയാണ്